ഒരു സർക്യൂട്ടിൽ ഒരു നോൺ ലീനിയർ ടു പോർട്ട് നേരിടുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇനിപ്പറയുന്നതാണ് ആദ്യം നമ്മൾ ഏതെങ്കിലും നോൺലീനിയർ സമവാക്യം പരിഹരിക്കുന്നതിനുള്ള സാധാരണ വേദനാജനകമായ രീതിയിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് നേടുന്നു നമുക്ക് പ്രവർത്തന പോയിന്റ് ലഭിച്ചുകഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാണ് നമ്മൾ ചെയ്യുന്നത് നോൺ ലീനിയർ ടു പോർട്ട് ഒരു ലീനിയർ ടു പോർട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക എന്നതാണ് രണ്ട് പോർട്ടുകളുടെയും പാരാമീറ്ററുകൾ എന്തൊക്കെയാണ് അവ ഓപ്പറേറ്റിംഗ് പോയിന്റിലെ വലിയ സിഗ്നൽ സ്വഭാവത്തിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവുകളല്ലാതെ മറ്റൊന്നുമല്ല സർക്യൂട്ട് ഇക്വലന്റ് എന്താണ് ഒരു പോർട്ട് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ ഇക്വലന്റ് റെസിസ്റ്ററായിരുന്നു ടു പോർട്ട് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ ഇക്വലന്റ് ലീനിയർ ടു പോർട്ടുകളാണ് എന്താണ് അത് നമുക്ക് നമ്മുടെ നോൺലീനിയർ ടു പോർട്ട് ഉണ്ട് ഇതിന്റെ ഇക്വലന്റ് ഒരു ലീനിയർ ടു പോർട്ട് ആണ് ചിലപ്പോൾ ഇവിടെ ബോക്സിനുള്ളിലെ മാട്രിക്സ് നൽകിയാൽ അതിന്റെ അർത്ഥമെന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം ഇത് V1 I1 V2 I2 ആണെങ്കിൽ ഇത് Δ V1 Δ I1 Δ V2 Δ I2 എന്നിവയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം തന്നെ ഇത് ചെറിയ ഇൻക്രിമെന്റുകൾക്ക് മാത്രമേ സാധുതയുള്ളൂ ഇത് പ്രസക്തമായ പ്രവർത്തന പോയിന്റിൽ വിലയിരുത്തപ്പെടുന്നു ആവശ്യമുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നിങ്ങൾ ചെറിയ സിഗ്നൽ റെസിസ്റ്റൻസ് ഡയോഡ് കണക്കാക്കുന്നത് പോലെ ഈ എല്ലാ പാരാമീറ്ററുകളും പ്രസക്തമായ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഈ ഭാഗിക ഡെറിവേറ്റീവുകളും നിങ്ങൾ കണക്കാക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് സമവാക്യങ്ങളിൽ ഉപയോഗിക്കാം സർക്യൂട്ട് ഇക്വലൻസിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കൂടുതൽ സുഖകരമാണെന്ന് കരുതുന്നു അതിനാൽ ഇതിന്റെ സർക്യൂട്ട് ഇക്വലൻസും നിങ്ങൾക്കറിയാം ഇത് പോർട്ട് 1 ൽ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ചാലകത y11 അല്ലെങ്കിൽ പ്രതിരോധം 1 ഓവർ y11 ഉണ്ടായിരിക്കും ഇവയുടെയെല്ലാം അളവുകൾ ഇവിടെ നിന്ന് വ്യക്തമാകുന്ന ചാലകതയാണെന്ന് വളരെ വ്യക്തമായിരിക്കണം നിങ്ങൾക്ക് ഇവിടെ വൈദ്യുതധാരകളുണ്ട് വോൾട്ടേജും ഉണ്ട് ഒരു കറന്റ് ലഭിക്കാൻ നിങ്ങൾ വോൾട്ടേജിനെ എന്തെങ്കിലും കൊണ്ട് ഗുണിക്കണം അതിനാൽ ഇത് ഒരു ചാലകമായിരിക്കണം അതിനാൽ നാലെണ്ണവും ചെയ്യുക നിങ്ങൾക്ക് y12 Δ V2 ആയിരിക്കുന്ന ഒരു നിയന്ത്രണ ഉറവിടം ഉണ്ടായിരിക്കും മറുവശത്ത് നിങ്ങൾക്ക് y21 Δ V1 ആയ ഒരു നിയന്ത്രണ ഉറവിടവും y22 എന്ന ചാലകത അല്ലെങ്കിൽ 1 ഓവർ y22 എന്ന ഒരു റെസിസ്റ്റൻസും ഉണ്ടായിരിക്കും ഇത് Δ V2 ആണ് ഇത് Δ I2 ആയിരിക്കും ഇത് Δ I1 ആയിരിക്കും നിങ്ങൾ ഡയോഡ് അല്ലെങ്കിൽ രണ്ട് ടെർമിനൽ നോൺ ലീനിയാരിറ്റിയെ റെസിസ്റ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നതുപോലെ നിങ്ങൾ രണ്ട് പോർട്ടുകളും ഒരു ലീനിയർ ടു പോർട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും അതിനാൽ അത്രമാത്രം അത് അവിടെയുണ്ട് ഇപ്പോൾ ഒരു കാര്യം കൂടി ഞങ്ങൾക്കറിയാം ഞാൻ വീണ്ടും ഡയോഡിന്റെ ഒരു ഉദാഹരണം എടുക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു പോർട്ട് എലമെന്റോ രണ്ട് ടെർമിനൽ എലമെന്റോ പരിഗണിക്കാം ഞങ്ങൾക്ക് കറന്റ് വോൾട്ടേജിന്റെ പ്ലോട്ട് ഉണ്ട് ഒരു ഡയോഡിന് അത് അത്തരത്തിലുള്ള ഒന്നാണെന്ന് നമുക്കറിയാം അത് ഒരു കറന്റിൽ പക്ഷപാതം ആണെന്നോ ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റ് 1mA ആണെന്നോ പറയാം ചെറിയ സിഗ്നൽ ഇൻക്രിമെന്റൽ തത്തുല്യമാണെന്നും നമുക്കറിയാം അതെന്താണ് ഇത് ഒരു റെസിസ്റ്ററാണ് ഈ റെസിസ്റ്ററിന്റെ മൂല്യം എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്കറിയാം ഈ r അടിസ്ഥാനപരമായി നോൺ ലീനിയാരിറ്റി f ആണെങ്കിൽ r ആയിരിക്കും f ചാലകത g f ആയിരിക്കും ഓപ്പറേറ്റിംഗ് പോയിന്റിൽ അതിനാൽ നിങ്ങൾക്ക് 1mA ഉണ്ട് അത് ഈ ഗ്രാഫിന്റെ ചരിവാണ് ഒരു നോൺലീനിയർ എലമെന്റിന് എന്താണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു നോൺലീനിയർ സ്വഭാവത്തിന്റെ ഗ്രാഫിക്കൽ ചിത്രീകരണത്തിന് നാല് പ്ലോട്ടുകൾ ആവശ്യമാണ് പാരാമീറ്ററായി V2 ഉള്ള I1 വേഴ്സസ് V1 അതിനാൽ ഈ രണ്ട് പ്ലോട്ടുകൾക്കും V2 ആണ് പരാമീറ്റർ ഈ രണ്ട് പ്ലോട്ടുകൾക്കും V1 ആണ് പരാമീറ്റർ y11 എന്ന ഇൻക്രിമെന്റൽ പാരാമീറ്റർ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ∂ f1 ∂ V1 ആണെന്ന് ഇപ്പോൾ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഈ ഗ്രാഫിലുള്ള കർവ് I1 വേഴ്സസ് V1 ന്റെ സ്ലോപ്പ് ഞങ്ങൾക്ക് ആവശ്യമാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്തോ ആണെന്ന് പറയട്ടെ അത് എന്താണെന്ന് ഞങ്ങൾ ചെയ്യും ഞാൻ അതിനെ V10 V20 എന്ന് വിളിക്കാം അപ്പോൾ നിങ്ങൾ എന്തുചെയ്യും ഈ ഗ്രാഫിൽ V10 എവിടെയാണെന്ന് നിങ്ങൾ നോക്കി V1 ന് അനുയോജ്യമായ കർവും ആ ഘട്ടത്തിൽ y11 ന് തുല്യമായ സ്ലോപ്പും തിരഞ്ഞെടുക്കുക അതുപോലെ ഈ കർവിൽ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ y21 ∂ f2 ∂ V1 ആണെന്ന് നമുക്കറിയാം നിങ്ങൾ V10 എവിടെയാണെന്ന് നോക്കുന്നു നിങ്ങൾ V20 ന് അനുയോജ്യമായ കർവ് തിരഞ്ഞെടുക്കുക ആ പോയിന്റിലെ സ്ലോപ്പ് y21 ന് തുല്യമാണ് അതുപോലെ ഈ രണ്ട് ഗ്രാഫുകളും നിങ്ങൾക്ക് y12 നൽകുന്നു ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ V2 നെ സംബന്ധിച്ച f1 ന്റെ ഡെറിവേറ്റീവ് ആണ് അതിനാൽ ഇവിടെ നിങ്ങൾ V20 എവിടെയാണെന്ന് നോക്കുന്നു നിങ്ങൾ V10 ന് അനുയോജ്യമായ കർവ് തിരഞ്ഞെടുക്കുക ഇത് ഇതാണെന്ന് പറയാം തുടർന്ന് അവിടെയുള്ള സ്ലോപ് y12 ന് തുല്യമാണ് അവസാനമായി y22 എന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ V2 നെ സംബന്ധിച്ച് f2 ന്റെ ഭാഗിക ഡെറിവേറ്റീവ് ആണ് അതിനാൽ നിങ്ങൾ വീണ്ടും V20 എവിടെയാണെന്ന് നോക്കുന്നു നിങ്ങൾ V10 ന് അനുയോജ്യമായ കർവ് തിരഞ്ഞെടുക്കുന്നു അതിനാൽ അത് ഇതാണെന്ന് പറയാം തുടർന്ന് അവിടെയുള്ള സ്ലോപ് y22 ന് തുല്യമായ ഓപ്പറേറ്റിംഗ് പോയിന്റിലെ ആ കർവിന്റെ സ്ലോപ് എന്ന് പറയാം അതിനാൽ പൊതുവെ എല്ലാ ചെറിയ സിഗ്നൽ പരാമീറ്ററുകളും അടിസ്ഥാനപരമായി വലിയ സിഗ്നൽ കർവുകളുടെ ഡെറിവേറ്റീവുകളാണ് ഈ I1 വേഴ്സസ് V1 ഈ കർവുകൾ വലിയ സിഗ്നൽ കർവുകൾ എന്ന് അറിയപ്പെടുന്നു ഇത് വലിയ സിഗ്നലാണ് കാരണം ഇത് ചെറിയ സിഗ്നലല്ല ചെറിയ സിഗ്നൽ ഓപ്പറേറ്റിംഗ് പോയിന്റിന് ചുറ്റുമുള്ള ചെറിയ ഇൻക്രിമെന്റുകളെ സൂചിപ്പിക്കുന്നു വലിയ സിഗ്നൽ മൊത്തം സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു ചെറിയ സിഗ്നൽ സ്വഭാവസവിശേഷതകൾ വലിയ സിഗ്നൽ സവിശേഷതകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ചെറിയ സിഗ്നൽ ലീനിയർ പാരാമീറ്ററുകൾ അടിസ്ഥാനപരമായി ഓപ്പറേറ്റിംഗ് പോയിന്റിലെ വലിയ സിഗ്നൽ സ്വഭാവസവിശേഷതകളുടെ സ്ലോപ്പാണ് ഒരു പോർട്ട് രണ്ട് പോർട്ട് അല്ലെങ്കിൽ എത്ര പോർട്ടുകൾക്കും ഏത് തരത്തിലുള്ള നോൺ ലീനിയറിറ്റിക്കും ഇത് ശരിയാണ്